കീവേഡ് നിയന്ത്രണം ഫ്ലോ റേറ്റ് റേഷ്യോ കൺട്രോൾ ഫീഡ്ബാക്ക് നിയന്ത്രണം കൺട്രോൾ സ്ട്രീം ഫീഡ്ബാക്കും ഫീഡ് ഫോർവേർഡും ഉള്ള മറ്റൊരു നിയന്ത്രണത്തിലേക്ക് നമുക്ക് ഇപ്പോൾ നോക്കാം ഇത് വളരെ സാധാരണമായ ഒരു നിയന്ത്രണ കോൺഫിഗറേഷനാണ് ഇത് പ്രത്യേകിച്ച് രാസ പ്രക്രിയകളിൽ ഉപയോഗിക്കുന്നു ഇത് ഒരു പ്രത്യേക ഫീഡ്ബാക്കും ഫീഡ് ഫോർവേഡ് കൺട്രോൾ ലൂപ്പ് കോൺഫിഗറേഷനുമാണ് ഇത് ബർണറുകളിൽ കോമ്പോസിഷൻ നിയന്ത്രണവും ഇന്ധന വായു അനുപാതവും നിലനിർത്തുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ചൂളയുള്ള ബോയിലർ പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബർണർ നിങ്ങളുടെ പക്കലുണ്ടെന്ന് സങ്കൽപ്പിക്കാം നമ്മൾ തീജ്വാല ഉൽപാദിപ്പിക്കണം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഇന്ധനവും വായുവും എന്നാൽ പൂർണ്ണമായ ജ്വലനം നടക്കുന്ന ഒരു അനുപാതമായി അവ നൽകണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇന്ധനം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചൂട് സൃഷ്ടിക്കുകയില്ല മറുവശത്ത് ആവശ്യത്തിന് വായു ഇല്ലെങ്കിൽ ഇന്ധനം പൂർണ്ണമായും കത്തിക്കില്ല മാത്രമല്ല കാർബൺ മോണോക്സൈഡ് പോലുള്ള മലിനീകരണം അന്തരീക്ഷത്തിലേക്ക് ഉത്പാദിപ്പിക്കുകയും ചെയ്യും സമ്പൂർണ്ണ ജ്വലനത്തിന് ഇന്ധന വായു റേഷ്യോ ശരിയായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ ഡിസ്റ്റലേഷൻ നിരകളിലും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിഫ്ലക്സ് റേഷ്യോ അതിനാൽ ചില റിയാക്ടറിലോ ചേമ്പറിലോ കൃത്യമായ വോള്യൂമെട്രിക് ഫ്ലോ അനുപാതത്തിൽ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് കൊണ്ടുവരേണ്ട വിവിധ സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് റേഷ്യോ കൺട്രോൾ പ്രയോഗിക്കുന്നത് റേഷ്യോ കൺട്രോൾ ഉപയോഗിക്കുന്ന രണ്ട് സാധാരണ കോൺഫിഗറേഷനുകൾ ഉണ്ട് നമുക്ക് ഒന്നാമത്തെ കോൺഫിഗറേഷൻ നോക്കാം റേഷ്യോ കണ്ട്രോളിൽ നമുക്ക് രണ്ട് സ്ട്രീമുകളുണ്ട് ആദ്യത്തേത് നമുക്ക് വൈൽഡ് സ്ട്രീം ഓർമ്മിക്കാം അതിനാൽ നമ്മൾ ആ സ്ട്രീം നേരിട്ട് നിയന്ത്രിക്കുന്നില്ല ഉൽപാദന അളവിൽ നിന്നുള്ള മറ്റ് പരിഗണനകളാൽ ആ സ്ട്രീം നിയന്ത്രിക്കപ്പെടുന്നു ചില ഓപ്പറേറ്റർ മാറ്റം കാരണം സ്വതന്ത്രമായി മാറുന്ന ഒരു മാസ്റ്റർ സ്ട്രീം പോലെയാണ് ഇത് ഇത് സ്ലേവ് സ്ട്രീം അല്ലെങ്കിൽ നിയന്ത്രിത സ്ട്രീം ആണ് വൈൽഡ് സ്ട്രീം മാറുകയാണെങ്കിൽ വൈൽഡ് സ്ട്രീമിലെ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റിന്റെ അനുപാതവും സ്ലേവ് സ്ട്രീമിലെ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റും സ്ഥിരമായി നിലനിർത്തുന്ന രീതിയിൽ ഈ സ്ട്രീം നമ്മൾ മാറ്റണം എന്നതാണ് നമ്മളുടെ ആശയം ഇതാണ് നമ്മളുടെ ലക്ഷ്യം അതിലേക്ക് എത്താൻ നമ്മൾ ഈ സ്ട്രീമുകൾ അളക്കണം ഇതിനായി നമ്മൾ രണ്ട് ഫ്ലോ ട്രാൻസ്മിറ്ററുകൾ ഇടുന്നു അവ യഥാർത്ഥത്തിൽ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ് അളക്കുന്നു റേഷ്യോ ലഭിക്കുന്നതിന് ഇവിടെ നമ്മൾ അവയെ വിഭജിക്കുന്നു ഇതാണ് യഥാർത്ഥ റേഷ്യോ ഇത് ആവശ്യമുള്ള ഒരു റേഷ്യോ ആണ് ഇതാണ് അനുപാത കൺട്രോളർ ഇത് മറ്റൊരു ഇൻപുട്ടാണ് ഈ റേഷ്യോ കൺട്രോളർ വാൽവിൽ ഈ ഇൻപുട്ട് നൽകുന്നു അതിനാൽ നിയന്ത്രണ സ്ട്രീം മാറ്റുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അങ്ങനെ ഈ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് റേഷ്യോ നിലനിർത്താൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നു നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വഴിയുണ്ട് ഉദാഹരണത്തിന് ഈ കോൺഫിഗറേഷനിൽ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വൈൽഡ് സ്ട്രീമിൽ നിന്ന് സെറ്റ് പോയിന്റ് നൽകുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്നത് വൈൽഡ് സ്ട്രീമിലെ ഒഴുക്ക് നിരക്ക് അളക്കുക എന്നാണ് വ്യുൽപ്പന്ന അനുപാതത്തിൽ നിങ്ങൾ ഗുണിച്ചാൽ വൈൽഡ് സ്ട്രീമിന്റെ ഈ ഫ്ലോ റേറ്റിൽ നിയന്ത്രണ സ്ട്രീം മെറ്റീരിയൽ എത്രത്തോളം വരണം എന്ന് നിങ്ങൾക്ക് ലഭിക്കും ആ അർത്ഥത്തിൽ നിയന്ത്രണ സ്ട്രീമിന്റെ ഫ്ലോ റേറ്റിനായി ഇത് നിയന്ത്രിക്കാനുള്ള ഒരു സെറ്റ് പോയിന്റാണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു സെറ്റ് പോയിന്റ് നൽകുന്നു തുടർന്ന് ഇത് ഒരു സാധാരണ ഫീഡ്ബാക്ക് നിയന്ത്രണമാണ് നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിലും ചെയ്യാനും റേഷ്യോ നേടാനും കഴിയും ഇത് ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുഎത്തിക്കുന്നു നമുക്ക് ഈ പാഠം അവലോകനം ചെയ്യാം ആദ്യം ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന പോരായ്മ നോക്കുക ഡിസ്റ്റർബൻസ് മാറ്റങ്ങളോട് ഇതിന് ഉടനടി പ്രതികരിക്കാൻ കഴിയില്ല മാത്രമല്ല അത് മന്ദഗതിയിലാണ് ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിനെ ബാധിക്കാൻ വളരെയധികം സമയമെടുക്കുന്നതിനാൽ അത് സംഭവിക്കുന്നു ഒരു അവശ്യ നിയന്ത്രണ കോൺഫിഗറേഷൻ ഉപയോഗിച്ച് ഒരു ഫീഡ്ബാക്ക് കണ്ട്രോളറിന് ഔട്ട്പുട്ടിലെ മാറ്റങ്ങളോട് മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ ഒപ്പം എന്താണ് ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല അതായത് തിരുത്തുന്നതിന് പിശകുകൾ രൂപപ്പെടണം ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണത്തിൽ പിശകുകൾ സാവധാനത്തിൽ രൂപം കൊള്ളുന്നുവെങ്കിൽ പിശകുകൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നു അതിനാൽ നമുക്ക് നല്ല പ്രതികരണം ലഭിക്കണമെങ്കിൽ ഡിസ്റ്റർബൻസ് അളക്കാൻ കഴിയുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇൻലെറ്റ് ഫ്ലോ റേറ്റിന്റെ താപനില ഒരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അത് എളുപ്പത്തിൽ അളക്കാൻ കഴിയും ഡിസ്റ്റർബൻസ് അളക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഡിസ്റ്റർബൻസ് മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിന് നമ്മളുടെ നിയന്ത്രണ പ്രവർത്തനം ഉടനടി മാറ്റാൻ നമുക്ക് കഴിയണം അവ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനു മുമ്പുതന്നെ ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിൽ ഒരു പ്രഭാവം സൃഷ്ടിക്കുന്നതിനുമുമ്പ് നമ്മൾ നിർവീര്യമാക്കണം ആ ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് ഫീഡ് ഫോർവേർഡ് കൺട്രോൾ സൃഷ്ടിച്ചതും ഇതാണ് ഫീഡ് ഫോർവേർഡ് കൺട്രോളിന്റെ അടിസ്ഥാന നേട്ടം എന്നാൽ നമ്മൾ വളരെ കൃത്യതയോടെ മോഡലുകളെ തയ്യാറാക്കേണ്ടത് ഒരു വലിയ പ്രതികൂല്യം ആണ് ഫീഡ് ഫോർവേഡ് നിയന്ത്രണം ഒറ്റപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു ഫീഡ്ബാക്ക് ട്രിമിനൊപ്പം ഇത് ഉപയോഗിക്കണം സ്റ്റെഡി സ്റ്റേറ്റ് മോഡലിനെയും ലളിതമായ ഡൈനാമിക് മോഡലിനെയും അടിസ്ഥാനമാക്കിയുള്ള ഫീഡ് ഫോർവേഡ് കൺട്രോളറുകളുടെ രൂപകൽപ്പന നമ്മൾ കണ്ടു ഡൈനാമിക് മോഡലുകളെ അടിസ്ഥാനമാക്കി ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളറിന്റെ രൂപകൽപ്പന നടത്താൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഇത് പ്രോസസ് ഔട്ട്പുട്ട് പോയിന്റുമായി സെറ്റ് പോയിന്റുമായി പൊരുത്തപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചിലതരം സെറ്റ് പോയിൻറ് മാറ്റങ്ങൾക്ക് നമുക്ക് യുക്തി രഹിതമായ ഔട്ട്പുട്ട് ലഭിച്ചേക്കാം നൽകാൻ കഴിയാത്ത പോയിൻറ് പ്ലാന്റ് ആവശ്യപ്പെടാം അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഫീഡ് ഫോർവേർഡ് കൺട്രോളറിലേക്ക് സെറ്റ് പോയിൻറ് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഫീഡ് ഫോർവേർഡിലേക്ക് കമാൻഡ് പ്രീ ഫിൽറ്റർ എന്നറിയപ്പെടുന്നവ നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട് പ്രായോഗികമായി മോഡലുകൾ പ്രത്യേകിച്ച് ഡൈനാമിക് മോഡലുകൾ വളരെ കൃത്യമായി നേടാൻ കഴിയില്ലെന്ന് നമ്മൾ കണ്ടു ഡൈനാമിക് മോഡലുകൾ കൃത്യമായി ലഭിക്കുന്നത് എല്ലായ്പ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഫീഡ് ഫോർവേർഡ് കൺട്രോളറിനൊപ്പം നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൺട്രോളറും സംയോജിപ്പിക്കണം അതുവഴി മോഡലിംഗ് കൃത്യതയില്ലാത്ത നിയന്ത്രണ പിശക് ഫീഡ്ബാക്ക് ലൂപ്പിൽ സാവധാനം ശരിയാക്കും എന്നാൽ ഒടുവിൽ അവ തിരുത്തപ്പെടും നമുക്ക് ഡിസ്റ്റർബൻസ് തിരുത്തൽ നടപടിയും വളരെ വേഗത്തിൽ ലഭിക്കും ഏതൊക്കെ പിശകുകൾ അവശേഷിക്കുന്നുവോ അവ ഒടുവിൽ തിരുത്തപ്പെടും നമ്മൾ കണ്ടത് ഇതാണ് തുടർന്ന് ഒരു റേഷ്യോ കൺട്രോൾ കോൺഫിഗറേഷൻ നമ്മൾ കണ്ടു ഇത് ഒരു മിക്സഡ് ഫീഡ് ഫോർവേഡ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷനാണ് പ്ലാന്റിനുണ്ടായ ഡിസ്റ്റർബൻസ് അതാണ് നമ്മൾ അനുഭവിക്കുന്ന വൈൽഡ് സ്ട്രീം അതേ സമയം നമ്മൾ ഒരു ഫീഡ്ബാക്ക് സൃഷ്ടിക്കുന്നു വൈൽഡ് സ്ട്രീമിൽ നിന്ന് വരുന്ന സെറ്റ് പോയിന്റ് ഒരു ഫീഡ്ബാക്ക് കോൺഫിഗറേഷനിലാണ് സ്ട്രീം നിയന്ത്രിക്കുന്നത് അത് നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് ഒരു ഡിസ്റ്റർബൻസ് പോലെയാണ് അതുകൊണ്ട് ഇത് ഒരു മിക്സഡ് ഫീഡ് ഫോർവേഡ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷനാണ് അവസാനമായി കൂടുതൽ ചിന്തിക്കേണ്ട ചില പോയിന്റുകളിലേക്ക് വരുന്നു ഫീഡ് ഫോർവേർഡ് നിയന്ത്രണം അഭികാമ്യമായ കേസുകൾ ഏതാണ് ഔട്ട്പുട്ട് ഡിസ്റ്റർബൻസ് ബാധിക്കുന്നതിന് ഡിസ്റ്റർബൻസ് വളരെയധികം സമയമെടുക്കുന്നതും അളക്കാൻ കഴിയുന്നതുമായ സാഹചര്യങ്ങളാണിവ ഫീഡ്ബാക്കിനൊപ്പം ഫീഡ്ബാക്ക് ഫീഡ് ഫോർവേർഡ് നിയന്ത്രണം സാധാരണയായി പ്രയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇതും നിങ്ങൾ ഈ പാഠത്തിൽ ഒരു ഉത്തരം കണ്ടെത്തും ഈ പാഠത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നിരവധി തവണ സംസാരിച്ചു കൂടാതെ ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിന് ഒരു പ്രായോഗിക ഉദാഹരണം നൽകണോ ചലന നിയന്ത്രണത്തിലെ പല സാഹചര്യങ്ങളിലും ഫീഡ് ഫോർവേഡ് നിയന്ത്രണം പ്രയോഗിക്കുന്നു റോളിംഗ് മില്ലുകളിലും നമുക്ക് ഇതിനകം കണ്ടതുപോലെ താപനില നിയന്ത്രണ പ്രശ്നങ്ങളിലും പറയാം നിങ്ങളുടേതായ ഒരു ഉദാഹരണം കണ്ടെത്താനും ഫീഡ് ഫോർവേഡ് നിയന്ത്രണം അവിടെ എങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് കാണാനും ശ്രമിക്കുക അവസാനമായി റേഷ്യോ കൺട്രോൾ എന്നത് ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിൻറെ ഒരു രൂപമാണോ അതോ ഇത് ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണമാണോ അതോ മിശ്രിതമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുന്നതിനാൽ ഇതിനെ ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് വിളിക്കാം എന്നാൽ അതേ സമയം ഒരു ഫീഡ്ബാക്ക് ലൂപ്പും ഉണ്ട് ഇത് ശുദ്ധമായ ഫീഡ് ഫോർവേർഡാണോ അതോ ഫീഡ്ബാക്കാണോ അതോ ഏത് തരത്തിലുള്ള ഘടനയാണെന്ന് ന്യായീകരിക്കുക വളരെയധികം നന്ദി അടുത്ത പാഠത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം